ഈ ആഴ്ചയിൽ ഞങ്ങൾ ലോ പവർ ഡിസൈനിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ ആരംഭിക്കും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെലോ പവറിനായി ഒരു സർക്യൂട്ടുകൾ രൂപകൽപന ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് മാത്രമല്ല ഇത് വിഎൽഎസ്ഐ ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്ന രീതിയെയും പ്രത്യേകിച്ച് വിഎൽഎസ്ഐ ചിപ്പുകളുടെ ബാക്ക് എൻഡ് ഡിസൈൻ എന്ന് വിളിക്കപ്പെടുന്ന ഫിസിക്കൽ ഡിസൈൻ പ്രക്രിയയെയും ബാധിക്കുന്നു ചില സാങ്കേതിക വിദ്യകളും ചില നിയമങ്ങളും ഇന്ന് ചെയ്യുന്ന രീതി ഡിസൈനിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഡിസൈൻ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അന്തിമ ഉൽപ്പന്നത്തിൽ ചിപ്പ് കുറച്ച് വൈദ്യുതി ഉപയോഗിക്കുന്നു അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയംലോ പവർ VLSI ഡിസൈൻ അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ വൈദ്യുതി ഉപഭോഗം വളരെ വലിയ വെല്ലുവിളിയാണ് ഒരുപക്ഷേ ആധുനിക വിഎൽഎസ്ഐ ഡിസൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഇത് പ്രകടനത്തെ ദ്വിതീയ തലത്തിലേക്ക് നയിക്കുന്നു പ്രാഥമിക കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഉപകരണങ്ങളും പോർട്ടബിൾ സ്വഭാവമുള്ളവയാണ് തീർച്ചയായും നമ്മുടെ മേശകളിൽ ഇരിക്കുന്ന ഡെസ്ക്ടോപ്പുകൾ ഈ പോർട്ടബിൾ ഉപകരണമെല്ലാം ബാറ്ററി പവറിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മുടെ ലാപ്ടോപ്പുകൾ നമ്മുടെ നോട്ട്ബുക്കുകൾ നമ്മുടെ ടാബുകൾ എല്ലാം ഇവയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതിനുള്ളിൽ നിർമ്മിച്ച ബാറ്ററിയിൽ നിന്നാണ് അവയ്ക്കെല്ലാം ഊർജം ലഭിക്കുന്നത് ഈ ഉപകരണങ്ങളിൽ എംബെഡഡ് ചെയ്യുന്ന സർക്യൂട്ടുകൾ നിങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയുമെങ്കിൽ അവ കുറഞ്ഞ പവറോ ഊർജമോ ഉപഭോഗം ചെയ്യുന്ന വിധത്തിൽ ഉപകരണങ്ങളുടെ ബാറ്ററി ആയുസ്സ് വർദ്ധിക്കുന്നു ഇത് ഉപയോക്താക്കളുടെ വീക്ഷണകോണിൽ നിന്ന് വളരെ അഭികാമ്യമാണ് അതിനാൽ വൈദ്യുതി വിതരണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും വർഷങ്ങളായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഡിസൈൻ പ്രക്രിയയിൽ ഞങ്ങൾ നാലാമത്തെ ഡയമെൻഷൻ ചേർത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ചിലപ്പോൾ പറയുന്നു മറ്റ് 3 ഡയമെൻഷൻ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ചില പാഠപുസ്തകങ്ങളിൽ പലയിടത്തും കാണാവുന്ന ഒരു സാധാരണ ചിത്രമാണിതെന്ന് നിങ്ങൾ കാണുന്നു ഈ 70 കളിലും 80 കളിലും പരമ്പരാഗതമായി ഏരിയയും ഡിലയും ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്ററുകളായിരുന്നു ആരെങ്കിലും ഒരു സർക്യൂട്ട് ഒരു ചിപ്പ് രൂപകൽപ്പന ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്റെ സർക്യൂട്ടുകൾ ചിപ്പിൽ സിലിക്കൺ ഫ്ലോറിൽ silicon floor എത്രമാത്രം കുറഞ്ഞ ഏരിയ ഉൾക്കൊള്ളുന്നു പരമാവധി വേഗത എന്താണ് എന്നതായിരുന്നു പ്രാഥമിക ഊന്നൽ അതിനാൽ ഡിലേ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഇപ്പോൾ പലപ്പോഴും ഈ ഏരിയയും ഡിലയും പരസ്പരവിരുദ്ധമാണ് അതിനാൽ മെറിറ്റുകളുടെ ചില ഫിഗർ നിർദ്ദേശിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു അവയിലൊന്ന് ഏരിയയുടെയും ഡിലേ സ്ക്വയറിന്റെയും പ്രോഡക്റ്റ് a d സ്ക്വയർ ആയിരുന്നു നിങ്ങൾ ഉപയോഗിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന അത്തരം മാട്രിക്സ് നിരവധിയുണ്ട് അതിനാൽ നിങ്ങൾക്ക് മെറിറ്റിന്റെ ഒരു ഫിഗർ നേടാനാകും എന്നാൽ സർക്യൂട്ടുകൾ കൂടുതൽ കൂടുതൽ സങ്കീർണ്ണമാകാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത് ഏരിയയും ഡിലേയും മാത്രമല്ല പാരാമീറ്ററുകൾ എന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഒരു ചിപ്പ് നിർമ്മിച്ചതിന് ശേഷം ഡിസൈനർമാരുടെ അല്ലെങ്കിൽ ടെസ്റ്റ് എഞ്ചിനീയർമാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ചിപ്പിൽ പ്രത്യക്ഷമായ ഫാബ്രിക്കേഷൻ വൈകല്യങ്ങളൊന്നും അടങ്ങിയിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ആയിരുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ ചിപ്പ് ഒരു ടെസ്റ്റിംഗ് പ്രക്രിയയിലൂടെ കടന്നുപോകേണ്ടതുണ്ട് ചിപ്പിലെ കോംപ്ലക്സിറ്റി കൂടും തോറും ടെസ്റ്റിംഗും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടാകും നേരത്തെ ചർച്ച ചെയ്ത ടെസ്റ്റബിലിറ്റി ടെക്നിക്കുകൾക്കായുള്ള ഡിസൈൻ പോലുള്ള ചില ഡിസൈൻ നിയമങ്ങൾ ഉണ്ടായിരിക്കണം അവ ഡിസൈൻ പ്രക്രിയയിൽ തന്നെ ഉൾപ്പെടുത്തുകയോ എംബെഡഡ് ചെയ്യുകയോ ചെയ്യണം അതിനാൽ ഏത് സർക്യൂട്ടുകൾ രൂപകൽപ്പന ചെയ്താലും അവ എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതാണ് അതുകൊണ്ടാണ് 80കളിലും 90കളിലും ഈ ഡയഗ്രം ടെസ്റ്റബിലിറ്റിയിലെ ഈ മൂന്നാമത്തെ അച്ചുതണ്ട് ചിത്രത്തിലേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ 2000 മുതൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഉപകരണങ്ങൾ പോർട്ടബിൾ ഉപകരണങ്ങൾ എന്നിവയുടെ വരവോടെ ഈ ഡിസൈൻ സ്പേസിലെ നാലാമത്തെ പാരാമീറ്റർ പവർ വളരെ പ്രാധാന്യമർഹിക്കുന്നു ഏരിയ ഡിലേ ടെസ്റ്റബിലിറ്റി area delay and testability എന്നിവ മാത്രമല്ല ഈ വൈദ്യുതി ഉപഭോഗ പ്രശ്നവും നിങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് നമുക്ക് ചില പദങ്ങൾ നോക്കാം ഇന്നത്തെ സാങ്കേതികവിദ്യയിൽ സാധാരണയായി CMOS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സാധാരണ ചിപ്പിൽ അതിനാൽ നിങ്ങൾ VDD എന്ന് വിളിച്ച പവർ സപ്ലൈയിൽ നിന്ന് ഗ്രൌണ്ടിലേക് കറന്റ് ഒഴുകുമ്പോഴെല്ലാം വൈദ്യുതി വിതരണം ചെയ്യപ്പെടുമെന്ന് നമ്മൾ പറയുന്നു വോൾട്ടേജ് സോഴ്സിൽ നിന്നാണ് പവർ എടുക്കുന്നത് ഈ വൈദ്യുതധാരകളുടെ ഈ സോഴ്സ് വ്യത്യസ്തമായിരിക്കാം ഇവ നമുക്ക് പിന്നീട് കാണാം എന്നാൽ നമ്മൾ സാധാരണയായി പവർ അളക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഇത് വളരെ വ്യക്തമായി വിശദീകരിക്കും അതിനാൽ നമ്മൾ ഇൻസ്റ്റന്റിനിയസ് പവർ എനർജിയും ആവറേജ് പവറും തമ്മിൽ വേർതിരിച്ചറിയുന്നു അപ്പോൾ അവ എങ്ങനെ നിർവചിക്കപ്പെടുന്നു കറന്റിന്റെയും വോൾട്ടേജിന്റെയും പ്രോഡക്റ്റ് ആയാണ് ഇൻസ്റ്റന്റിനിയസ് പവർ ലളിതമായി നിർവചിച്ചിരിക്കുന്നത് കാണുക VDD യിൽ നിന്ന് ഗ്രൌണ്ടിലേക്ക് ഒഴുകുന്ന കറന്റിനെ നമ്മൾ IDD എന്ന് വിളിക്കുന്നു വോൾട്ടേജ് VDD കൊണ്ട് ഗുണിച്ച ടൈമിന്റെ ഫങ്ക്ഷനാണിത് ഇപ്പോൾ ഇൻസ്റ്റന്റിനിയസ് പവർ നമ്മുടെ ബാറ്ററി എത്രമാത്രം ചോർന്നൊലിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രം നൽകുന്നില്ല കാരണം ചിലപ്പോൾ ഇൻസ്റ്റന്റിനിയസ് പവർ വളരെ ഉയർന്നതായിരിക്കാം പക്ഷേ വളരെക്കാലമായി നമ്മൾ വളരെ കുറഞ്ഞ പവർ ഉപയോഗിക്കുന്നു അതായത് നമ്മുടെ കറന്റ് വളരെ കുറവാണ് ഒരുതരം ആവറേജ് കൂടുതൽ അർത്ഥവത്താണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ വലിച്ചെടുക്കുന്ന പവറിന് പകരം നമ്മൾ എനർജിയെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ എനർജി എങ്ങനെ നിർവചിക്കപ്പെടുന്നു അതിനാൽ ഞാൻ ഈ പദങ്ങൾ ഗ്രാഫിക്കായി വളരെ വേഗം വിശദീകരിക്കും ഈ എനർജി ഒരു നിശ്ചിത സമയത്തിനുള്ളിലെ ഇൻസ്റ്റന്റിനിയസ് പവറിന്റെ ഇന്റഗ്രൽ ആയി നിർവചിക്കപ്പെട്ടിരിക്കുന്നു ക്യാപിറ്റൽT 0 മുതൽ T വരെ എന്ന് പറയാം ഇൻസ്റ്റന്റിനിയസ് പവറിന്റെ ആകെത്തുക എത്രയാണ് ആ സമാഹരണത്തെ എനർജി ആയി നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ നിർവചിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഈ എനർജി കണക്കാക്കുന്നത് ഒരു ടൈം പീരിഡിലാണ് T അതിനാൽ നിങ്ങൾ ആവറേജ് കണക്കാക്കിയാൽ ഈ E യെ T കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ആവറേജ് പവർ ലഭിക്കും സാധാരണയായി ഒരു സർക്യൂട്ടിന്റെയോ ഉപകരണത്തിന്റെയോ ചിപ്പിന്റെയോ വൈദ്യുതി ഉപഭോഗം നമ്മൾ വിലയിരുത്തുമ്പോൾ എനർജിയെക്കുറിച്ചോ ആവറേജ് പവറിനെക്കുറിച്ചോ സംസാരിക്കുന്നു ഇനി ഈ 3 കാര്യങ്ങളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ഡയഗ്രാമിന്റെ സഹായത്തോടെ നോക്കാം നമുക്ക് ഒരു സാധാരണ ഡയഗ്രം കാണിക്കാം ഇതാണ് ടൈമിന്റെ ആക്സിസ് ഇവിടെ ഇൻസ്റ്റന്റിനിയസ് പവർ ഉപഭോഗം കാണിക്കുന്നു അതായത് കറന്റിന്റെയും വോൾട്ടേജിന്റെയും പ്രോഡക്റ്റ് P യുടെ വാല്യൂ ഇതുപോലെ ടൈമിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു അതിനാൽ സമയം 0 നും ക്യാപിറ്റൽ T യ്ക്കും ഇടയിലുള്ള പവർ അളക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ഇപ്പോൾ നിർവചനങ്ങൾ ഓർക്കുക t യുടെ ഒരു പ്രത്യേക വാല്യൂ എടുക്കുക അതിനാൽ P യുടെ വാല്യൂ എന്താണെന്ന് നോക്കിയാൽ അത് ഇവിടെയുണ്ട് ഇതാണ് ഇൻസ്റ്റന്റിനിയസ് പവർ IP ഈ പ്രത്യേക സമയത്ത് ഇൻസ്റ്റന്റിനിയസ് പവർ നമുക്ക് ti എന്ന് പറയാം ഇപ്പോൾ തന്നെ എനിക്ക് എനർജി കണക്കാക്കണമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനർജി P യുടെ 0 മുതൽ ക്യാപിറ്റൽ T വരെയുള്ള ഇന്റഗ്രൽ ആണ് അപ്പോൾ ഇന്റഗ്രലിന്റെ ഭൌതിക വ്യാഖ്യാനം എന്താണ് ഇന്റഗ്രൽ എന്നാൽ ഈ കർവിന് കീഴിലുള്ള ഏരിയ ഇത് എനർജി ആയി നിർവചിക്കപ്പെടുന്നു അതായത് 0 നും T നും ഇടയിലുള്ള P dt ഇപ്പോൾ നിങ്ങൾ ഈ സമയത്തെ ആവറേജ് എനർജി എടുക്കുകയാണെങ്കിൽ P എനർജി വ്യത്യാസപ്പെടുന്നു അതിനാൽ ആവറേജ് ഇവിടെ എവിടെയോ ആയിരിക്കും നിങ്ങൾ അത് ഒരു നേർരേഖയായി കാണിക്കുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് ആവറേജ്പവർ Pavg നൽകും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനർജിയെ ഈ ടൈം T കൊണ്ട് ഹരിച്ചാൽ P ആവറേജ് കണക്കാക്കാം അതിനാൽ ഈ P ആവറേജ് ഈ ലെവലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതായത് ഈ ദീർഘചതുരത്തിന്റെ ഉയരം എനർജി മൊത്തം ഏരിയയാണ് ഉയരം വീതിയും കൊണ്ട് ഗുണിക്കുക വീതി ക്യാപിറ്റൽ T ആണ് നമ്മൾ ഈ ഏരിയയെ ക്യാപിറ്റൽ T കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ഈ ഉയരം ലഭിക്കും അതായത് പി ആവറേജ് അതിനാൽ ഡയഗ്രമാറ്റിക്കായി ഇൻസ്റ്റന്റിനിയസ് പവറും എനർജിയും ആവറേജ് പവറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരുന്നു അതിനാൽ നമുക്ക് തിരിച്ചുവരാം ഒരു സാധാരണ CMOS സർക്യൂട്ടിലെ പവർ ഡിസിപ്പേഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പവർ ഡിസ്പേഷനെ 3 തരങ്ങളായി തരംതിരിക്കാം ഡൈനാമിക് ഷോർട്ട് സർക്യൂട്ട് സ്റ്റാറ്റിക് ഈ വ്യത്യസ്ത തരത്തിലുള്ള പവറിന്റെ സോഴ്സ് എന്തൊക്കെയാണെന്നും ഇവയുടെ ഫലങ്ങൾ കുറയ്ക്കുന്നതിന് സ്വീകരിക്കുന്ന സാധാരണ രീതികൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം നമുക്ക് ഇത് പിന്നീട് കാണാം നമുക്ക് ഡൈനാമിക് പവർ ഉപയോഗിച്ച് ആരംഭിക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ സർക്യൂട്ടുകളുടെ ചലനാത്മകതയെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് ഡൈനാമിക് പവർ ഡൈനാമിക്സിന്റെ നിർവചനം എന്താണ് കാലത്തിനനുസരിച്ച് മാറുന്ന ഒന്ന് അതിന്റെ നിർവചനം അനുസരിച്ച് ഡൈനാമിക് പവർ അർത്ഥമാക്കുന്നത് സർക്യൂട്ടുകളിലെ ചില സിഗ്നലുകൾ മാറുമ്പോഴെല്ലാം ആ മാറ്റങ്ങൾ പവർ ഡിസിപ്പേഷന് കാരണമാകുന്നു അതാണ് അടിസ്ഥാനപരമായി ഡൈനാമിക് പവർ ഡിസിപ്പേഷൻdynamic power dissipation എന്ന് അർത്ഥമാക്കു അതിനാൽ അടിസ്ഥാനപരമായി ട്രാൻസിസ്റ്റർ സ്വിച്ച് ഉപയോഗിച്ച് ലോഡ് കപ്പാസിറ്റൻസുകൾ ചാർജ് ചെയ്യുന്നതിനും ഡിസ്ചാർജ് ചെയ്യുന്നതിനും ഡൈനാമിക് പവർ ആവശ്യമാണ് CMOS ഇൻവെർട്ടറിന്റെ വളരെ ലളിതമായ ഉദാഹരണം നോക്കാം അതിനാൽ ഇവിടെ എനിക്ക് ഒരു PMOS ട്രാൻസിസ്റ്ററും NMOS ട്രാൻസിസ്റ്ററും ഉണ്ട് ഇതാണ് എന്റെ ഇൻപുട്ട് എ എന്നും ഇത് എന്റെ ഔട്ട്പുട്ട് എഫ് എന്നും നമുക്ക് പറയാം അതിനാൽ എയുടെ കോംപ്ലിമെന്റ് ആണ് ഇത് VDD ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഔട്ട്പുട്ട് മറ്റ് ഗേറ്റുകളുടെ ഇൻപുട്ടുകളെ നയിക്കുന്നതാകാം അതിനാൽ ഇത് ഒരു ലോഡ് കപ്പാസിറ്റൻസ് ഡ്രൈവ് ചെയ്യുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം ലോഡ് കപ്പാസിറ്റൻസ് C ആണെന്ന് പറയാം അതിനാൽ A യുടെ വാല്യൂ 0 ൽ നിന്ന് 1 ലേക്ക് മാറുമ്പോൾ f ന്റെ വാല്യൂ 1 ൽ നിന്ന് 0 ലേക്ക് മാറുമെന്ന് പറയാം അതുപോലെ A തിരികെ 0 ലേക്ക് മാറുമ്പോൾ f ന്റെ വാല്യൂ വീണ്ടും 1 ലേക്ക് മാറും ഇപ്പോൾ ഈ ഔട്ട്പുട്ട് നോഡ് f ഉയർന്നതിൽ നിന്ന് താഴ്ന്നതിലേക്കും താഴ്ന്നതും ഉയർന്നതിലേക്കും മാറുമ്പോഴെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് ഇത് ഉയർന്നതിൽ നിന്ന് താഴ്ന്നതിലേക്ക് മാറുമ്പോൾ ഇതിനർത്ഥം C ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു അത് താഴ്ന്നതിൽ നിന്ന് ഉയർന്നതിലേക്ക് ഉയരുമ്പോഴെല്ലാം സി ചാർജ് ചെയ്യപ്പെടുന്നുവെന്ന് ഞങ്ങൾ പറയുന്നു ഇപ്പോൾ ഈ സർക്യൂട്ടിൽ പുൾ ഡൌൺ ട്രാൻസിസ്റ്ററിലൂടെ കപ്പാസിറ്ററിന്റെ ഡിസ്ചാർജിംഗ് പാത ഇതാണ് പുൾ അപ്പ് ട്രാൻസിസ്റ്ററിലൂടെയാണ് കപ്പാസിറ്ററിന്റെ ചാർജിംഗ് പാത CMOS സർക്യൂട്ടിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ A യുടെ വാല്യൂവിനെ ആശ്രയിച്ച് ഒന്നുകിൽ പുൾ അപ്പ് അല്ലെങ്കിൽ പുൾ ഡൌൺ നെറ്റ്വർക്കുകളിൽ ഒന്ന് നടത്തുന്നു അതിനാൽ അതിനെ ആശ്രയിച്ച് ഈ സി ഒന്നുകിൽ ഡിസ്ചാർജ് ചെയ്യും അല്ലെങ്കിൽ അത് ചാർജ് ചെയ്യും ഇപ്പോൾ ഓരോ തവണയും ഒരു കപ്പാസിറ്ററിന്റെ ചാർജ്ജിംഗ് ഡിസ്ചാർജിംഗ് ഉണ്ടാകുമ്പോൾ അത് പവർ ഉപഭോഗം ചെയ്യും കാരണം നിങ്ങൾ സർക്യൂട്ട് സിദ്ധാന്തത്തിൽ നിന്നുള്ള അടിസ്ഥാന നിർവചനം ഓർക്കുന്നു കറന്റ് C dVdt ആയി നിർവചിച്ചിരിക്കുന്നു അതിനാൽ കറന്റിനെ കപ്പാസിറ്ററിന്റെയും വോൾട്ടേജിന്റെ മാറ്റത്തിന്റെ നിരക്കിന്റെയും പ്രോഡക്റ്റ് ആയി നിങ്ങൾക്ക് നിർവചിക്കാം ഇത്തരത്തിലുള്ള ചാർജിംഗ് ഡിസ്ചാർജിംഗ് നടക്കുമ്പോൾ അവിടെ ഒരു കറന്റ് ഉണ്ടാകും കറന്റിന്റെയും വോൾട്ടേജിന്റെയും പ്രോഡക്റ്റ് ആണ് പവർ ഉപഭോഗമായിരിക്കും നമുക്ക് ഈ സ്ലൈഡിലേക്ക് മടങ്ങാം ഞാൻ ഒരു സൈക്കിളിൽ കാണിച്ചുതന്നു നമുക്ക് ഔട്ട്പുട്ട് ഉയരുകയും ഔട്ട്പുട്ട് കുറയുകയും ചെയ്യാം അതിനാൽ ഉയരുന്ന ഔട്ട്പുട്ട് ഉണ്ടാകുമ്പോഴെല്ലാം അതായത് ഔട്ട്പുട്ട് നോഡ് ചാർജ്ജ് ചെയ്യപ്പെടുന്നു ചാർജ് എന്നാൽ കപ്പാസിറ്റർ VDD ലേക്ക് ചാർജ് ചെയ്യുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ മൊത്തം ചാർജ് എത്രയാണ് കപ്പാസിറ്റൻസിന്റെയും വോൾട്ടേജിന്റെയും പ്രോഡക്റ്റ് ആണ് ചാർജ് അതിനാൽ C നെ VDD കൊണ്ട് ഗുണിക്കുന്നു ഔട്ട്പുട്ട് നോഡ് VDD ലേക്ക് ചാർജ് ചെയ്യാൻ ഇത്രയും ചാർജ് ആവശ്യമാണ് അതുപോലെ ഔട്ട്പുട്ട് 0 ലേക്ക് പോകുമ്പോൾ ലോഡ് കപ്പാസിറ്റർ ഗ്രൌണ്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ അത് സംഭവിക്കാം ഞങ്ങൾ ഒരു നിശ്ചിത പീരീഡ് ടി പരിഗണിക്കുന്നുവെന്ന് പറയാം ഇപ്പോൾ ഈ പീരീഡ്നുള്ളിൽ T ഔട്ട്പുട്ട് f പലതവണ മുകളിലേക്കും താഴേക്കും പോകാം ഇത് സർക്യൂട്ടിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ ഇത്തരമൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ T യുടെ അതേ ഇടവേളയിൽ കപ്പാസിറ്റർ ഒന്നിലധികം തവണ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു ചാർജിംഗ് ഡിസ്ചാർജിംഗ് ചാർജിംഗ് ഡിസ്ചാർജിംഗ് ചാർജിംഗ് ഡിസ്ചാർജിംഗ് എന്നിവ കാണുക ഞാൻ ഒരു fSW പാരാമീറ്റർ നിർവചിക്കുകയാണെങ്കിൽ ഇത് ഒരു ടൈം പീരീഡ്നുള്ളിൽ T മാറുന്നതിന്റെ ഫ്രിക്വൻസിയാണ് അതിനാൽ നിങ്ങൾ f SW Tഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഈ പീരീഡ്നുള്ളിൽ നടക്കുന്ന സ്വിച്ചിംഗുകളുടെ എണ്ണമായിരിക്കും ടൈമിന്റെയും സ്വിച്ചിംഗ് ഫ്രിക്വൻസിയുടെയും പ്രൊഡക്ടിനെ സ്വിച്ചിംഗ് ഫ്രിക്വൻസി SW എന്ന് വിളിക്കാം ഇത് ഇതിനകം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് സ്വിച്ചിംഗിന്റെ ഫ്രിക്വൻസി fSW ആണെങ്കിൽ ആ ചാർജിംഗും ഡിസ്ചാർജിംഗ് സൈക്കിളും ഒരു സമയ ഇടവേളയിൽ നിരവധി തവണ ആവർത്തിക്കും ഇനി ഒരു സർക്യൂട്ടിലെ ആവറേജ് ഡൈനാമിക് പവർ എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ അനുമാനം ഇതുപോലെയുള്ള ഒരു സർക്യൂട്ട് ഉണ്ടെന്നാണ് അവിടെ ഒരു പിരീഡ് ടൈം ടി ഉള്ളതും ഇൻപുട്ടുകൾ ചില നിരക്കിൽ മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് T എന്ന ടൈം പീരീഡിനുള്ളിൽ ഞാൻ എന്റെ കാല്കുലേഷനിൽ കേന്ദ്രീകരിക്കുന്നുവെന്നും T എന്ന ടൈം പീരീഡിനുള്ളിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇൻവെർട്ടറിൽ രണ്ടും ഒരുപോലെയായിരിക്കും ഒരു നിശ്ചിത എണ്ണം മാറിക്കൊണ്ടിരിക്കുന്ന ആ ചിത്രം ഞാൻ വീണ്ടും കാണിക്കുന്നു അതിനാൽ ഞാൻ അതിനെ സ്വിച്ചിന്റെ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത് ഇനി നമുക്ക് ഈകാല്കുലേഷൻ നോക്കാം അതിനാൽ ഡൈനാമിക് പവർ എങ്ങനെ കണക്കാക്കാം ഇത് യഥാർത്ഥത്തിൽ ആവറേജ് പവർ ഉപഭോഗമാണ് അതിനാൽ ഔട്ട്പുട്ട് മാറുമ്പോഴെല്ലാം ടൈം 0 നും T നും ഇടയിൽ ഞാൻ കറന്റിനെ വോൾടേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇതാണ് ഇൻസ്റ്റന്റിനിയസ് പവറിന്റെ നിർവചനം നിങ്ങൾ അതിനെ ഒരു ടൈം ടി ൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എനർജി ലഭിക്കും ആവറേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവറേജ് പവർ കിട്ടും VDD കോൺസ്റ്റന്റ് ആയതിനാൽ നിങ്ങൾ അത് എടുക്കുക നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പ്രെഷൻ ഉണ്ട് അതിനാൽ ഇവിടെ നിന്ന് എനിക്ക് ഇത് എങ്ങനെ ലഭിക്കുന്നു എന്ന് നോക്കാം ഞങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പ്രെഷൻ ലഭിക്കുന്നു ഞാൻ ഇത് വർക്ക് ഔട്ട് ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് വിഡിഡിയെ ടി ഇന്റഗ്രൽ 0 മുതൽ ടി കറന്റ് ഡിടി വരെ ഹരിച്ചാൽ ലഭിക്കും ഇനി നമുക്ക് ഒരു ഒബ്സെർവഷൻ നടത്താം അതിനാൽ നമ്മുടെ ഒബ്സെർവഷൻ കറന്റിന്റെ വാല്യൂ വോൾട്ടേജിന്റെ മാറ്റത്തിന്റെ നിരക്കും കപ്പാസിറ്റൻസിന്റെയും പ്രോഡക്റ്റ് ആയി നിർവചിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഇത് കണക്കിലെടുക്കുകയാണെങ്കിൽ അതിനാൽ IDD dt C dV ആയി മാറുന്നു അതിനാൽ എനിക്ക് ഇത് t ഇന്റഗ്രൽ C dV ഉപയോഗിച്ച് VDD ആയി എഴുതാം ഇപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ V ആണ് അപ്പോൾ V യുടെ റേഞ്ച് എന്തായിരിക്കും ഞാൻ 0 മുതൽ T വരെ വർക്ക് ചെയ്യുന്നുവെന്ന് നോക്കൂ അതിനാൽ ഇത് 0 മുതൽ ഞാൻ ഇവിടെ ഒരു ചോദ്യചിഹ്നമായി എഴുതുന്നത് വരെ ആയിരിക്കും കാരണം ഈ ടൈമിനുള്ളിൽ T ചാർജ് ചെയ്യലും ഡിസ്ചാർജ് ചെയ്യലും ഒന്നിലധികം തവണ സംഭവിക്കും അതിനാൽ ഓരോ ചാർജിംഗിനും ഓരോ ചാർജ്ജിംഗ് വോൾട്ടേജുകളും ലോഡ് കപ്പാസിറ്ററിൽ 0 മുതൽ ഏകദേശം VDD വരെ പോകുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതിനായി അത് 0 ലേക്ക് തിരിച്ചുള്ള VDD ആണ് ഇപ്പോൾ അത്തരം ഓരോ സൈക്കിളിലും എനിക്ക് ഇതുപോലെ എഴുതാം VDD by T ഡിവി എന്നത് C ഇൻടു V എന്നതല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ ഇത് VDD വരെ ചാർജ് ചെയ്യുന്നു അതിനാൽ ഓരോ ചാർജിംഗിനും അത് Cഇൻടു VDD ആയിരിക്കും ഇത് മാത്രമല്ല ഈ കാലയളവിനുള്ളിൽ ഇത് എത്ര തവണ ചാർജ് ചെയ്യുന്നു ഞാൻ പറഞ്ഞതുപോലെ SW നെ T കൊണ്ട് ഗുണിച്ചാൽ അത് ചാർജ് ചെയ്യുന്നു അതിനാൽ fSW നെ T കൊണ്ട് ഗുണിച്ചാൽ ഈ കാലയളവിനുള്ളിൽ ഈ ചാർജിംഗും ഡിസ്ചാർജിംഗും എത്ര തവണ നടക്കുന്നു എന്ന് ഇത് നിങ്ങൾക്ക് നൽകും അതിനാൽ നിങ്ങൾ ഇതിനെ ഈ T കൊണ്ട് fSW ആയി ഗുണിക്കേണ്ടതുണ്ട് ഇത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ്ന്റെ ആകെ വാല്യൂ നൽകും അടിസ്ഥാനപരമായി നിങ്ങൾ ഇവയ്ക്കിടയിൽ വേർതിരിക്കുന്ന ഈ ഇന്റഗ്രൽ ഘടകം കാണുക ഈ ഓരോ സെഗ്മെന്റും 1 2 3 അതിനാൽ അത്തരം നിരവധി സെഗ്മെന്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ അവയെ ചേർത്താൽ കൊണ്ട് നിങ്ങൾ ഇതിനെ ഇത് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു സിംപ്ലിഫിക്കേഷൻ നടത്തിയാൽ ഇത് എത്രത്തോളം വരും C VDD സ്ക്വയർ T റദ്ദാക്കുകയും fSW ഡൈനാമിക്സ് പവർ എന്നതിന്റെ അവസാന എക്സ്പ്രെഷനാണിത് അതിനാൽ ഈ എക്സ്പ്രെഷനിലും ഇതുതന്നെയാണ് കാണിക്കുന്നത് ഒടുവിൽ ഡൈനാമിക് പവറിന്റെ വാല്യൂ ഇതാണ് ഇവിടെ നിരീക്ഷിക്കേണ്ട കാര്യം ഡൈനാമിക് പവർ ലോഡ് കപ്പാസിറ്റൻസിന് load capacitance ആനുപാതികമാണ് എന്നതാണ്

അതിനാൽ അത് കുറയ്ക്കുന്നതിന് VDD സ്ക്വയർന് ആനുപാതികമായ C യുടെ വാല്യൂ കുറയ്ക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം അതിനാൽ സപ്ലൈ വോൾട്ടേജ് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത് മികച്ചതും തീർച്ചയായും സിഗ്നൽ സ്വിച്ചിംഗ് ഫ്രീക്വൻസിക്ക് ആനുപാതികവുമായിരിക്കും നിങ്ങൾക്ക് ഫ്രിക്വൻസി കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത് ഡൈനാമിക് പവർ കുറയ്ക്കും ഇപ്പോൾ ഡൈനാമിക് പവർ എന്ന ആശയം ഒരു പടി മുന്നോട്ട് കൊണ്ട് നമുക്ക് ആക്ടിവിറ്റി ഫാക്ടർ എന്ന് വിളിക്കാം ഇപ്പോൾ നമ്മൾ ഈ fSW നെ കുറിച്ച് സംസാരിച്ച മുൻ എക്സ്പ്രഷനിൽ കാണുക അത് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നലുകൾ ശരിയായി മാറുന്നതിന്റെ ഫ്രിക്വൻസിയായിരുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ക്ലോക്ക് ഫ്രീക്വൻസിയെക്കുറിച്ചാണ് f എന്നത് നമ്മുടെ ക്ലോക്ക് ഫ്രീക്വൻസിയാണ് ഇപ്പോൾ നമ്മൾ ഈ fSW നെ f മായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു ആൽഫ എന്ന പാരാമീറ്റർ ഉപയോഗിച്ച് ഗുണിച്ചാൽ അത് ആക്ടിവിറ്റി ഫാക്ടർ ആയി നിർവചിക്കപ്പെടുന്നു ചില സിഗ്നലുകൾക്ക് ക്ലോക്ക് ഫ്രീക്വൻസിക്ക് clock frequencyതുല്യമായ നിരക്കിൽ സ്റ്റേറ്റ് മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ കാണുന്നു സർക്യൂട്ടുകളിലെ വിവിധ ഇവന്റസിനെ നിർവചിക്കുന്നത് ക്ലോക്കിന്റെ എഡ്ജുകൾ ആയതിനാൽ എന്നാൽ ക്ലോക്കിന്റെ എല്ലാ എഡ്ജുകളും സിഗ്നൽ സ്റ്റേറ്റ്ൽ മാറ്റം വരുത്തേണ്ടതില്ല അതിനാൽ ക്ലോക്ക് എഡ്ജുകളുടെ ഒരു ഭാഗം മാത്രമേ യഥാർത്ഥത്തിൽ ഡൈനാമിക് പവറിന്റെ ഉപഭോഗത്തിന് കാരണമാകുന്ന ഒരു പ്രവർത്തനത്തിന് കാരണമാകൂ അതിനാൽ ആക്ടിവിറ്റി ഫാക്ടർ എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഞങ്ങൾ നിർവ്വചിക്കുന്നു അത് ഫ്രീക്വൻസി കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് fSW ലഭിക്കും ഞങ്ങൾ ഇപ്പോൾ fSW കണക്കാക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഗേറ്റ് ഇൻപുട്ടുമായി ക്ലോക്കിനെ നേരിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ക്ലോക്കിന്റെ ഓരോ എഡ്ജിലും ഇൻപുട്ടും ഔട്ട്പുട്ടും മാറിക്കൊണ്ടിരിക്കും അവിടെ ആൽഫ 1 ന് തുല്യമാണ് എന്നാൽ ഗേറ്റ് ഔട്ട്പുട്ട് ഓരോ ക്ലോക്ക് സൈക്കിളിലും ഒരിക്കൽ മാറുകയാണെങ്കിൽവൺസ് പെർ ക്ലോക്ക് സൈക്കിൾസ് എന്നതിനർത്ഥം അല്ലെങ്കിൽ ഓരോ ക്ലോക്ക് സൈക്കിളിലും ക്ലോക്ക് രണ്ട് തവണ ഹൈയിൽ നിന്ന് ലോയിലേക്കും ലോയിൽ നിന്ന് ഹൈയിലേക്കും ട്രാൻസിറ്റ് ചെയ്യുന്നു എന്നാണ് ക്ലോക്കിന്റെ ഓരോ 2 സംക്രമണത്തിലും ഒരിക്കൽ ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നു ഇവിടെ ആക്ടിവിറ്റി ഫാക്ടർ പകുതിയായി നിർവചിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് CMOS ഡൈനാമിക് ഗേറ്റുകൾ ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല CMOS ഡൈനാമിക് ഗേറ്റുകൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഒരു NOR നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറയുക ഇതൊരു പി ടൈപ്പ് ട്രാൻസിസ്റ്ററാണ്p type transistor നിങ്ങൾ ഒരു ഡൈനാമിക്സ് CMOS ഡൈനാമിക്സ് ലോജിക്കിൽ കാണുന്നു ഞങ്ങൾ പുൾ അപ്പിൽ പല ട്രാൻസിസ്റ്ററുകളും ഉപയോഗിക്കുന്നില്ല ഇതാണ് ഔട്ട്പുട്ട് ഇതൊരു NOR ഗേറ്റാണ് അതിനാൽ ഇവിടെ പുൾ അപ്പ് നെറ്റ്വർക്കിൽ ഞങ്ങൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇവിടെ ഒന്ന് മാത്രം നിങ്ങൾ ഒരു ക്ലോക്ക് phi 1 ഉം phi 2 ഉം ഉപയോഗിക്കുന്നതായി നിങ്ങൾ കാണുന്നു ഇത് 2 ഫേസ് ക്ലോക്ക് പോലെയാണ് അതിനാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു ഞാൻ ചുരുക്കമായി നിങ്ങളോട് പറയട്ടെ phi 1 ഇതുപോലെ പ്രവർത്തിക്കുന്നു phi 2 ഇതുപോലെ പ്രവർത്തിക്കുന്നു അവ ഓവർലാപ്പുചെയ്യുന്നില്ല അതിനാൽ phi 1 1 ന് തുല്യമാകുമ്പോൾ phi 1 ബാർ 0 ആയിരിക്കും ഇത് ചാലകമാകും അതിനാൽ ഔട്ട്പുട്ട് ലോഡ് കപ്പാസിറ്റൻസ് ഇവിടെയായിരിക്കും ഇതാണ് നിങ്ങളുടെ സി ഫൈ 1 ഉയർന്ന ഈ പീരിഡിലാണ് നിങ്ങൾ ഈ ഘട്ടത്തെ പ്രീചാർജ് ഘട്ടം എന്ന് വിളിക്കുന്നത് ഈ പീരിഡിൽ ഫൈ 2 0ആണ് അതിനാൽ ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആണ് കപ്പാസിറ്റൻസ് VDD വഴി ചാർജ്ജ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇത് പ്രീ ചാർജ് സ്റ്റേറ്റ് ആണ് എന്നാൽ phi 2 ആയപ്പോൾ ഈ ഭാഗം phi 1 0 ലേക്ക് മടങ്ങും ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആണ് കപ്പാസിറ്ററിൽ നിന്ന് ഇതിനകം ചാർജ്ജ് ചെയ്തിട്ടുണ്ട് phi 2 ഹൈ എന്നത് അർത്ഥമാക്കുന്നത് ഇത് കണ്ടക്റ്റിംഗ് ആണ് എന്നാണ് ഇപ്പോൾ എ ബി എന്നിവയെ ആശ്രയിച്ച് ഈ കപ്പാസിറ്ററിന് ഡിസ്ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാതിരിക്കാം അതിനാൽ നമ്മൾ ഇതിനെ കമ്പ്യൂട്ട് ഫേസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഫൈ 1 ഫൈ 2 എന്നിവയുടെ ഘട്ടങ്ങളെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒന്നിടവിട്ട് മാറ്റാവുന്നതാണ് അതിനാൽ എ ബി എന്നിവയുടെ വാല്യൂ അനുസരിച്ച് ഔട്ട്പുട്ട് വാല്യൂ മാറാം മാറാതിരിക്കാം ഓരോ സൈക്കിൾ മോശം സാഹചര്യത്തിലും അത് രണ്ടുതവണ മാറാം പ്രീ ചാർജ് സ്റ്റേറ്റിൽ അത് 0 ൽ നിന്ന് ഹൈയിലേക് പോകാം വീണ്ടും കമ്പ്യൂട്ട് സ്റ്റേറ്റിൽ അത് ഹൈയിൽ നിന്ന് ലോയിലേക് മടങ്ങാം ഇത് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു ഒരു CMOS ഡൈനാമിക് ഗേറ്റ് സ്വിച്ചിംഗ് ആൽഫയുടെ പകുതിക്ക് തുല്യമായ ശരാശരി 0 മുതൽ 2 തവണ വരെ നടക്കുന്നു കാരണം ഓരോ സൈക്കിളിലും 2 തവണ എന്നാൽ ആൽഫ 1 ന് തുല്യമാണ് 0 എന്നാൽ 0 അതിനാൽ ശരാശരി പകുതിയാണ് എന്നാൽ CMOS സ്റ്റാറ്റിക് ഗേറ്റുകൾക്ക് പരമ്പരാഗത CMOS ഗേറ്റുകൾക്ക് ആക്ടിവിറ്റി ഫാക്ടർ ഡിസൈനിനെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണ വാല്യൂ ഏകദേശം 0 1 ആണ് നിങ്ങൾ ആക്ടിവിറ്റി ഫാക്ടർ കണക്കിലെടുക്കുകയാണെങ്കിൽ ഡൈനാമിക് പവർ സമവാക്യം ഈ സ്ക്വയറിലേക് മാറുന്നു നിങ്ങൾ fSW നെ ആൽഫ ഇൻ ടുf ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നു അതിനാൽ ആൽഫയും ഇവിടെ ഒരു ഘടകമാണ് ഇപ്പോൾ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് പവർ നോക്കുന്നു ഷോർട്ട് സർക്യൂട്ട് പവർ ഇത് സിഗ്നലുകൾ ട്രാന്സിഷൻസ് നടക്കുമ്പോൾ CMOS ഗേറ്റിലെ ഒരുതരം പവർ ഡിസ്പേഷൻ ആണ് വളരെ ചെറിയ സമയത്തേക്ക് അവ ഇടയ്ക്കിടെ NMOS PMOS നെറ്റ്വർക്കുകൾ കണ്ടക്റ്റിംഗ് ചെയ്യാൻ കഴിയും ഇതിനെ ക്രോബാർ കറന്റ് എന്നും വിളിക്കുന്നു ആധുനിക കാലത്തെ ഡിസൈനുകളിൽ ഈ ഷോർട്ട് സർക്യൂട്ട് പവർ മൊത്തം പവർ ഡിസിപ്പേഷന്റെ 20 ശതമാനം ട്യൂൺ ഉപയോഗിക്കും സ്വിച്ചിംഗ് ഫ്രീക്വൻസി കൂടുമ്പോൾഷോർട്ട് സർക്യൂട്ടുകളുടെ പവറും കൂടുതലായിരിക്കും കാരണം നിങ്ങൾ ക്ലോക്ക് ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുമ്പോൾ ട്രാന്സിഷന്റെയും ഫ്രീക്വൻസിയും വർദ്ധിക്കും അതിനാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം നമ്മൾ ലളിതമായ CMOS ഇൻവെർട്ടർ എടുക്കുന്നു അവിടെ ഇൻപുട്ട് 0 ൽ നിന്ന് ഹൈയിലേക്കും ലോയിൽ നിന്ന് ഹൈയിലേക്കും പോകുന്നു 0 മുതൽ 1 വരെയുള്ള ഇൻപുട്ട് 1 മുതൽ 0 വരെ ഇൻസ്റ്റന്റിനിയസ് ഉണ്ടാകില്ലെന്ന് നിങ്ങൾ കാണുന്നു ഒരു ഉയർച്ച സമയവും വീഴുന്ന സമയവും ഉണ്ടാകും ഇത് ഇൻവെർട്ടറിന്റെ ഒരു സാധാരണ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്റ്ററിസ്റ്റിക് കർവാണ് പിഎംഒഎസ് ട്രാൻസിസ്റ്റർ പൂർണ്ണമായോ ഭാഗികമായോ ഓണായിരിക്കുന്ന ഒരു റീജിയനുണ്ട് കൂടാതെ എൻഎംഒഎസ് ട്രാൻസിസ്റ്റർ പൂർണ്ണമായോ ഭാഗികമായോ ഓണായിരിക്കുന്ന ഒരു റീജിയനുണ്ട് ട്രാന്സിഷൻസ് വളരെ വേഗത്തിലാകുന്ന ഒരു ഇന്റർമീഡിയറ്റ് മേഖലയുണ്ട് NMOS PMOS ട്രാൻസിസ്റ്ററുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ചെറിയ വോൾട്ടേജ് എന്താണ് സംഭവിക്കുന്നത് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് 0 ൽ നിന്ന് 1 ലേക്ക് മാറുന്നു അത് 1 ൽ നിന്ന് 0 ലേക്ക് മാറുന്നുഎന്ന് കരുതുക അതിനാൽ VDD യിൽ നിന്ന് ഉള്ള കറന്റിന്റെ വാല്യൂ ഞാൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ CMOS ൽ കറന്റ് വളരെ കുറവായിരിക്കും എന്നാൽ ട്രാന്സിഷൻസമയത്ത് അവിടെ ഒരു ചെറിയ സ്പൈക്ക് കണ്ടെത്തും കാരണം ക്ഷണനേരം കൊണ്ട് പുൾ അപ്പ് പുൾ ഡൌൺ രണ്ടും കണ്ടക്ട് ചെയ്യുന്നു ഫ്രിക്വൻസി കൂടുന്നതനുസരിച് വരുന്ന സ്പൈകും കൂടുതലായിരിക്കും ഷോർട്ട് സർക്യൂട്ട് കറന്റ് എന്ന് വിളിക്കപ്പെടുന്നതിന്റെ ഉറവിടം ഇതാണ് അവസാനമായി നമ്മൾ സ്റ്റാറ്റിക് പവറിനെക്കുറിച്ച് സംസാരിക്കുന്നു സിഗ്നൽ ട്രാന്സിഷനുകളൊന്നും സംഭവിക്കാത്തപ്പോൾ പോലും ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റാറ്റിക് പവർ പ്രധാനമായും ലീക്കേജ് ഇഫക്റ്റുകൾ മൂലമാണ് ഇവ സംഭവിക്കുന്നത് അതിനാൽ ട്രാൻസിസ്റ്ററുകൾ ഓഫാണെങ്കിലും ചാലകമാകാത്തതിനാൽ ജംഗ്ഷനുകൾ ചാലകമാക്കാത്ത ചില റിവേഴ്സ് ബയസ് ഡയോഡുകളായി മാതൃകയാകാമെന്ന് കാണുന്നു ഡ്രെയിൻ ജംഗ്ഷൻ ലീക്കേജ് സബ് ത്രെഷോൾഡ് കറന്റ്leakage sub threshold current എന്നിവ ഉണ്ടാകാം അത്തരത്തിലുള്ള നിരവധി സോഴ്സ്കൾ ഉണ്ട് ഗേറ്റ് ലീക്കേജ് ഇത്തരത്തിലുള്ള ഇഫക്റ്റുകൾ കാരണം ചെറിയ അളവിൽ കറന്റ് തുടർച്ചയായി ഒഴുകും അതിനാൽ ഈ ലീക്കേജ് പവർ എപ്പോഴും ഉണ്ടായിരിക്കും ഇത് ഒഴിവാക്കാൻ കഴിയില്ല പക്ഷേ തീർച്ചയായും ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് കുറയ്ക്കാൻ കഴിയും ട്രാൻസിസ്റ്ററുകൾ ചെറുതും വലിയതുമായ ട്രാൻസിസ്റ്ററുകൾ ഒരു ചിപ്പിലേക്ക് പായ്ക്ക് ചെയ്തിരിക്കുന്നതിനാൽ സ്റ്റാറ്റിക് പവർ ഡിസ്പേഷന്റെ മൊത്തം സംഭാവനകൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു കാരണം ഇപ്പോൾ ഒരു ചിപ്പിൽ നമുക്ക് ഒരു ബില്യൺ ട്രാൻസിസ്റ്ററിന്റെയും കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളുടെയും ക്രമമുണ്ട് കൂടാതെ ഓരോ ട്രാൻസിസ്റ്ററും കുറച്ച് എനെർജിയോ പവറോ ഉപയോഗിക്കുന്നു അതിനാൽ ആകെ മൊത്തം നിങ്ങൾ എല്ലാ ബില്യൺ ട്രാൻസിസ്റ്ററുകളും ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ശരിയാകും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ ലീക്കേജ് കറന്റ് സബ് ത്രെഷോൾഡ് ലീക്കേജ് റിവേഴ്സ്ഡ് ബയസ് ജംഗ്ഷനുകൾ ചാനൽ പഞ്ച് ഓക്സൈഡ് ലീക്കേജ് തുടങ്ങിയവയുടെ നിരവധി സോഴ്സ്കൾ ഉണ്ടാകാം അതിനാൽ ചില ഡിസൈൻ കൃത്രിമങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇവയിൽ ചിലത് നിയന്ത്രിക്കാനാകും അതിനാൽ ഈ സാങ്കേതികതകളിൽ ചിലത് നമുക്ക് പിന്നീട് കാണാം ലോ പവർ ഡിസൈനിനെക്കുറിച്ചുള്ള low power design ഈ ആമുഖ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നു ഞങ്ങളുടെ അടുത്ത പ്രഭാഷണങ്ങളിൽ ചില ഡിസൈൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പവർ ഡിസ്പേഷനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങും